ഇതാണ് ഞങ്ങളുടെ കറന്റ് മിറർ ബയസ് ഉപയോഗിച്ചുള്ള കോമൺ സോഴ്സ് ആംപ്ലിഫയർ ഇപ്പോൾ ഇതിനകം തന്നെ നമുക്കറിയാവുന്ന കോമൺ സോഴ്സ് ആംപ്ലിഫയർ പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നാൽ ഇതിൻറെ ചെറിയ സിഗ്നൽ സ്വരൂപം ഞങ്ങൾ ഇടുകയും വിശകലനം ചെയ്യുകയും ചെയ്യും കൂടാതെ C1 C2 എന്നീ കപ്പാസിറ്ററുകളിലെയും റെസിസ്റ്റർ RG യിലെയും നിയന്ത്രണങ്ങൾ കണ്ടെത്താനും നമ്മൾ ആഗ്രഹിക്കുന്നു അത് ചെയ്യും ഇപ്പോൾ ഇൻക്രിമെന്റൽ സ്മാൾ സിഗ്നൽ ചിത്രത്തിൽ ഈ VDD ഒരു ഷോർട്ട് സർക്യൂട്ട് ആയി മാറുന്നു കാരണം VDD യിൽ മാറ്റമില്ല ശേഷിക്കുന്ന ഏക സോഴ്സ് Vs ആയിരിക്കും ഈ കറന്റ് സോഴ്സ് I0 ഒരു ഓപ്പൺ സർക്യൂട്ടായി മാറുന്നു കാരണം നിലവിലെ സോഴ്സിൽ തന്നെ വർദ്ധനവ് ഇല്ല ഈ I0 ഉം VDD ഉം പ്രവർത്തന പോയിന്റിന്റെ ഭാഗങ്ങളാണ് ഈ Vs ആണ് ഇൻക്രിമെന്റ് അതിനാൽ അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ഇതിൻറെ ഇൻക്രിമെന്റൽ ഇക്വിവലൻറ് വരയ്ക്കണo ആദ്യം കോമൺ സോഴ്സ് ആംപ്ലിഫയർൻറെ പ്രധാന ഘടകങ്ങൾക്കായി വരയ്ക്കാം ഇവിടെ വേറെ എന്തോ ഗേറ്റിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു അത് ഞാൻ പിന്നീട് ചേർക്കും അതിനാൽ ഇവിടെ നമുക്ക് Vs Rs C1 എന്നിവയുണ്ട് കൂടാതെ ട്രാൻസിസ്റ്റർ M1 ന് തുല്യമായ ചെറിയ സിഗ്നൽ സ്വരൂപം ഉണ്ട് ഇത് M1 ആണ് ഞാൻ ഇതിനെ gm1VGS1 എന്ന് വിളിക്കും ഇവിടെ ഇത് VGS1 ആണ് നമുക്ക് റെസിസ്റ്റർ RD എസി കപ്ലിംഗ് കപ്പാസിറ്റർ C2 RL ലോഡ് എന്നിവയുണ്ട് എന്നാൽ ഈ വിശകലനങ്ങളിലെല്ലാം ട്രാൻസിസ്റ്ററിൻറെ വർദ്ധിച്ചുവരുന്ന ഔട്ട്പുട്ട് കണ്ടക്ടൻസ് ഞാൻ അവഗണിക്കുകയാണ് പക്ഷേ ഇത് ഡ്രെയിനിനും ഗ്രൌണ്ട്നും ഇടയിൽ ദൃശ്യമാകുന്നുവെന്ന് നമുക്കറിയാം അതിനാൽ ഒടുവിൽ ഇത് RD RL എന്നിവയ്ക്ക് സമാന്തരമായി ദൃശ്യമാകും അതിനാൽ MOS ട്രാൻസിസ്റ്ററിൻറെ ഔട്ട്പുട്ട് കണ്ടക്ടൻസ് ഉപയോഗിച്ച് ഇത് വിശകലനം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഒട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അതിനാൽ ഞാൻ ഇത് ലളിതമായി സൂക്ഷിക്കും ഇപ്പോൾ ഞാൻ അത് ഒഴിവാക്കും പക്ഷേ ഇത് ഇവ രണ്ടിനും സമാന്തരമായി ദൃശ്യമാകുമെന്ന് മനസിലാക്കുക അതിനാൽ നിങ്ങൾക്ക് RD || RL ഉണ്ടായിരുന്നിടത്തെല്ലാം RD || RL || rds ലഭിക്കും ഇപ്പോൾ ട്രാൻസിസ്റ്ററിൻറെ ഗേറ്റിലേക്ക് മറ്റെന്തൊ ബന്ധിപ്പിച്ചിരിക്കുന്നു അതാണ് സർക്യൂട്ടിൻറെ ഈ ഭാഗം M0 ൻറെ ഗേറ്റ് മുതൽ M1 വരെ നമുക്ക് RG ഉണ്ട് അതിനാൽ ഇവയും ഞാൻ ലേബൽ ചെയ്യട്ടെ ഇതാണ് G1 D1 S1 അതായത് ഇവ MOS ട്രാൻസിസ്റ്റർ M1 ൻറെ ഗേറ്റ് ഡ്രെയിൻ സോഴ്സ് എന്നിവയാണ് ഇപ്പോൾ എനിക്ക് ട്രാൻസിസ്റ്റർ M0 ഉണ്ടാകും അതിനാൽ എനിക്ക് gm0VGS0 ഉണ്ട് ഇവിടെ ഇത് VGS0 ആണ് ഇത് ട്രാൻസിസ്റ്റർ M0 ൻറെ ഗേറ്റ് ട്രാൻസിസ്റ്റർ M0 ൻറെ ഡ്രെയിൻ ട്രാൻസിസ്റ്റർ M0 ൻറെ സോഴ്സ് എന്നിവയാണ് M0 ൻറെ ഡ്രെയിൻ സോഴ്സ് പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ആ കണക്ഷൻ നമ്മൾ കാണിക്കണം അതിനാൽ തന്നിരിക്കുന്ന സർക്യൂട്ടിൻറെ ഇൻക്രെമെന്റൽ ഇക്വിവലെന്റ് സർക്യൂട്ട് ഇടുന്ന സമയത്ത് ദയവായി വളരെ ശ്രദ്ധാലുവായിരിക്കുക കാരണം ചില കണക്ഷനുകളിൽ നിങ്ങൾ അവിടെ തെറ്റ് വരുത്തുകയോ അല്ലെങ്കിൽ ചില ഘടകങ്ങൾ ഒഴിവാക്കുകയോ തെറ്റായി ബന്ധിപ്പിക്കുകയോ ചെയ്താൽ ഫലം പൂർണ്ണമായും തെറ്റായിരിക്കും അതിനാൽ ഇതാണ് ഇവിടെ പുതിയ ഭാഗം ഈ RG ഇത് സീരിസിൽ ട്രാൻസിസ്റ്ററിൻറെ ഗേറ്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ഇത് എങ്ങനെ കാണപ്പെടുന്നുവെന്ന് അറിയാൻ നമുക്ക് ഇത് പരിശോധിക്കാം ഈ ഭാഗത്തിൻറെ ഇൻക്രെമെന്റൽ ഇക്വിവാലെന്റ് കണ്ടെത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതായത് ഈ ഗേറ്റ് 1 നും എല്ലാ ഘടകങ്ങളുമായി സീരിസിൽ ഉള്ള RG ക്കും ഇടയിൽ M0 ൻറെ ഗേറ്റിലേക്ക് RG ബന്ധിപ്പിച്ചിരിക്കുന്നു കൂടാതെ നമുക്ക് gm0VGS0 ഉണ്ട് ഇവിടെ ഇത് VGS0 ആണ് ഡ്രെയിനും ഗേറ്റും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ഈ രണ്ട് പോയിന്റുകൾക്കിടയിൽ ഈ പോയിന്റിനും ഗ്രൌണ്ടിനും ഇടയിൽ ഇത് രണ്ട് ടെർമിനൽ ഉപകരണമാണ് അതായത് ഈ ഭാഗം രണ്ട് ടെർമിനൽ ഉപകരണമാണ് അതിന് സ്വയം വിശകലനം ചെയ്യാൻ കഴിയും പക്ഷേ നമ്മൾ കാണുന്നത് പൊതുവായ ഫലമാണ് അതിനാൽ നമുക്ക് ഇത് ചെയ്യാം അതിനാൽ ഇത് G0 D0 gm0VGS0 ആണ് ഇവിടെ ഇത് VGS0 ആണ് അതിനാൽ ഇപ്പോൾ ഇവിടെ ഒരു ടെസ്റ്റ് വോൾട്ടേജ് പ്രയോഗിക്കാൻ അനുവദിക്കുക VTEST കറന്റ് ITEST കണ്ടെത്തുക എന്താണ് ഇത് വിശകലനം ചെയ്യാൻ വളരെ എളുപ്പമാണ് ഈ VTEST തന്നെ VGS0 ആണ് അതിനാൽ VGS0 VTEST ന് തുല്യമാണ് അതിനാൽ ഇവിടെ ഈ കറന്റ് gm0 മടങ്ങ് VTEST ആണ് അതിനാൽ ഈ ITEST അതിൽ ഈ കറന്റ് മാത്രമേ അടങ്ങിയിട്ടുള്ളൂ അതിനാൽ ITEST gm0 മടങ്ങ് VTEST ആയിരിക്കും അതിനാൽ ഈ പോയിന്റിനും ഗ്രൌണ്ട്നും ഇടയിലുള്ള ചെറിയ സിഗ്നൽ പ്രതിരോധം മറ്റൊന്നുമല്ല ITEST ബൈ VTEST 1gm0 ന് തുല്യമാണ് അതിനാൽ ഇവിടെയും ഇതിനിടയിലും ഒരു ഇൻക്രെമെന്റൽ ഇക്വിവാലെന്റ് ഉണ്ട് അതിന്റെ കണ്ടക്ടൻസ് gm0 അല്ലെങ്കിൽ റെസിസ്റ്റൻസ് 1gm0 ആണ് ഡ്രെയിനും ഗേറ്റും ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു ട്രാൻസിസ്റ്ററിന് ഇത് പൊതുവെ ശരിയാണ് അതിനാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ട്രാൻസിസ്റ്റർ ഉണ്ടെങ്കിൽ പോസിറ്റീവ് ത്രെഷോൾഡ് വോൾട്ടേജ് ഞങ്ങൾ കരുതുന്നതിനാൽ ഇത് സാച്ചുറേഷൻ മേഖലയിലായിരിക്കുo ഇൻക്രെമെന്റൽ സിഗ്നലിന് ഇവ രണ്ടും തമ്മിലുള്ള തുല്യത 1gm0 മൂല്യത്തിന്റെ റെസിസ്റ്ററാണ് ഇപ്പോൾ ഇവിടെ നിന്നുള്ള തുല്യത വളരെ വ്യക്തമാണ് ഇത് RG1gm0 ആയി സീരിസിൽ ആണ് അതുകൊണ്ടു ഇതാണ് നമുക്കുള്ള റെസിസ്റ്റൻസ് അതിനാൽ ഇപ്പോൾ നമുക്ക് ഈ മുഴുവൻ കാര്യങ്ങളും ഇവിടെ മാറ്റി എഴുതാം നിങ്ങൾക്ക് RG M0 എന്നിവയ്ക്കുള്ള ഭാഗം ഒരൊറ്റ റെസിസ്റ്റർ ഉപയോഗിച്ച് RG 1gm0 ഇപ്പോൾ ഒരു പ്രായോഗിക കോമൺ സോഴ്സ് ആംപ്ലിഫയറിൽ ഈ 1gm0 RG യേക്കാൾ വളരെ ചെറുതായിരിക്കാം അതിനാൽ ഇത് അവഗണിക്കാം പക്ഷേ ഇപ്പോഴും ഈ ഫലം ഓർമ്മിക്കാൻ ഉപയോഗപ്രദമാണ് കാരണം മറ്റ് പല സാഹചര്യങ്ങളിലും നിങ്ങൾ ഇത് നേരിടും സാച്ചുറേഷൻ മേഖലയിൽ നിങ്ങൾക്ക് ഒരു ട്രാൻസിസ്റ്റർ ഉള്ളപ്പോൾ അതിൻറെ ഗേറ്റ് ഡ്രെയിനിലേക്ക് ബന്ധിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് ടെർമിനലുകൾ ഉണ്ടാകും അവയ്ക്കിടയിൽ 1gm0 എന്ന ഇൻക്രെമെന്റൽ പ്രതിരോധം കാണും ഇപ്പോൾ നമുക്ക് തുല്യമായ ഈ സർക്യൂട്ട് ലഭിച്ചുകഴിഞ്ഞാൽ ഈ ചിത്രം സ്ഥിരമായ വോൾട്ടേജ് ബയസ് ഉള്ള നമ്മുടെ പഴയ കോമൺ സോഴ്സ് ആംപ്ലിഫയർ പോലെ കാണപ്പെടുന്നു അതിനാൽ അതിൽ നിന്നുള്ള എല്ലാ ഫലങ്ങളും നമുക്ക് ഉപയോഗിക്കാം അതിനാൽ ഞാൻ വ്യവസ്ഥകൾ വീണ്ടും കണ്ടുപിടിക്കാൻ പോകുന്നില്ല അതിനാൽ C1 ഷോർട് ആയി കാണപ്പെടുന്നതിന് നിയന്ത്രണം എന്തെന്നാൽ കപ്പാസിറ്റർ C1 ൻറെ റിയാക്ടൻസ് 1C1 സോഴ്സ് ശൂന്യമാക്കിയതിനുശേഷം അതായതു Vs പൂജ്യമാക്കിയതിനു ശേഷം അതിലുടനീളം ദൃശ്യമാകുന്നതിനേക്കാൾ വളരെ ചെറുതായിരിക്കണം എന്നതാണ് അതിനാൽ ഇത് ഒരു ഷോർട്ട് സർക്യൂട്ട് ആയി മാറുന്നു അതിലുടനീളം എന്താണ് പ്രത്യക്ഷപ്പെടുന്നത് നിങ്ങൾ ഈ ഗ്രൌണ്ട് കണക്ഷൻ പൂർത്തിയാക്കുകയാണെങ്കിൽ അത് വ്യക്തമാകും ഇത് Rs ആണ് സീരീസിലുള്ള റെസിസ്റ്റൻസ് ആണ് അതിനാൽ 1C1 Rs RG 1gm0 നേക്കാൾ വളരെ ചെറുതായിരിക്കണം അതുപോലെ C2 ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെ ദൃശ്യമാകുന്നതിന് അതിൻറെ റിയാക്ടൻസ് അതിലുടനീളം ദൃശ്യമാകുന്നതിനേക്കാൾ വളരെ ചെറുതായിരിക്കണം കൂടാതെ സോഴ്സ് ഇല്ലാതാക്കിയാൽ ഈ കറന്റ് സോഴ്സ് ഒരു ഓപ്പൺ സർക്യൂട്ടായി മാറുന്നു അതിനാൽ ഇത് ഇല്ല നമുക്കുള്ളത് RD RL മാത്രമാണ് യഥാർത്ഥ കോമൺ സോഴ്സ് ആംപ്ലിഫയറിൽ നിന്ന് നമുക്ക് ലഭിച്ച അതേ ഫലം ഇപ്പോൾ C2 ന് വേറെ ഒരു മാനദണ്ഡമുണ്ട് അതായത് ഈ ഡ്രെയിൻ വോൾട്ടേജും ലോഡ് വോൾട്ടേജും വർദ്ധനവിന്റെ കാര്യത്തിൽ തുല്യമാണെന്ന് ഉറപ്പുവരുത്തുക അതിനാൽ നിങ്ങൾക്കത് ലഭിക്കണമെങ്കിൽ 1C2 RL നേക്കാൾ വളരെ ചെറുതായിരിക്കണം ഇപ്പോൾ അവസാനമായി ഈ നിബന്ധനകൾ നമ്മൾ നിറവേറ്റുകയാണെങ്കിൽ നമുക്ക് C1 C2 എന്നിവയെ ഷോർട്ട് സർക്യൂട്ടുകൾ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാൻ കഴിയും ഷോർട്ട് സർക്യൂട്ടുകൾ ഉപയോഗിച്ച് അവ മാറ്റിസ്ഥാപിക്കുന്നു അപ്പോൾ ഇവിടെ ഗേറ്റ് സോഴ്സ് വോൾട്ടേജായി ദൃശ്യമാകുന്ന വോൾട്ടേജ് എന്താണ് VGS1 ബൈ Vs ഈ റെസിസ്റ്റീവ് ഡിവിഷനാണെന്ന് ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഇവിടെ Rs ഈ റെസിസ്റ്റൻസ് RG 1gm0എന്നിവയുണ്ട് അതിനാൽ ഈ അനുപാതം RG 1gm0RG 1gm0 Rs ഇത് ഏകദേശം ഒന്നായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഇത് ഏകദേശം ഒന്നായിരിക്കണമെങ്കിൽ നമുക്ക് RG 1gm0≫ Rs അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ RG≫ Rs കാരണം 1gm0 മറ്റെല്ലാ റെസിസ്റ്റൻസിനേക്കാളും ചെറുതായിരിക്കാം അതിനാൽ ഞാൻ ഇതിലൂടെ വളരെ വേഗത്തിൽ പോയി കാരണം നമ്മൾ ഇതിനകം ഫലങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് കാരണം യഥാർത്ഥ കോമൺ സോഴ്സ് ആംപ്ലിഫയറിൻറെ കാര്യത്തിൽ നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഈ അളവിന് പകരം നമുക്ക് എന്താണ് ഉണ്ടായിരുന്നത് നമുക്ക് R1||R2 ഉണ്ടായിരുന്നു ഇവ മുമ്പത്തെപ്പോലെ തന്നെയായിരുന്നു ഇതിന് സമാനമായ ഒരു അവസ്ഥയും നമുക്കുണ്ടായിരുന്നു അതായത് R1 R2 എന്നിവ രണ്ടും Rs നേക്കാൾ വളരെ വലുതായിരിക്കണം അതിനാൽ ഈ വ്യവസ്ഥകൾ കോമൺ സോഴ്സ് ആംപ്ലിഫയറിന് തുല്യമാണ് അതിനാൽ അത് മനസിലാക്കാൻ വളരെ എളുപ്പമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു